ഊർജ സംരക്ഷണത്തിന്റെയും മാലിന്യ ചൂട് വീണ്ടെടുക്കലിന്റെയും അടുത്ത പ്രഭാഷണത്തിലേക്ക് തിരികെ സ്വാഗതം ഇന്ന് നമ്മൾ തികച്ചും പുതിയ ഒരു വിഷയം ഏറ്റെടുക്കും അതിനെ ഹൈഡ്രജൻ സമ്പദ്വ്യവസ്ഥയും ഇന്ധന സെല്ലുകളും എന്ന് വിളിക്കുന്നു ഹൈഡ്രജൻ സമ്പദ്വ്യവസ്ഥയും ഇന്ധന സെല്ലുകളും ഒരു പ്രധാന വിഷയമാണ് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി കൂടുതൽ കൂടുതൽ ശ്രദ്ധ നേടിയ വിഷയമാണിത് 90 കളുടെ അവസാനത്തോടെയാണ് അവ ശരിക്കും ഉയർന്നു തുടങ്ങിയത് കൽക്കരി അല്ലെങ്കിൽ പ്രകൃതിവാതകം തുടങ്ങിയ ഹൈഡ്രജനുമായി താരതമ്യം ചെയ്യുമ്പോൾ വഴികൾ വളരെ പുതിയതാണ് ഇത് വളരെ പുതിയ വിഷയമാണ് ഹൈഡ്രജൻ എത്രത്തോളം നല്ലതാണ് എന്നതിനെ കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള ധാരാളം കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ട് ഒരു ഊർജ്ജ സ്രോതസ്സായി അങ്ങനെ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം ഹൈഡ്രജൻ സമ്പദ്വ്യവസ്ഥ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് മനസിലാക്കാം കൂടാതെ വീണ്ടും ഇന്ധന സെല്ലുകളെക്കുറിച്ചും ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണത്തെക്കുറിച്ചും സംസാരിക്കാൻ പോകുന്നു അപ്പോൾ എന്താണ് ഹൈഡ്രജൻ നമ്മൾ ഹൈഡ്രജൻ അവലോകനത്തെക്കുറിച്ചും പിന്നീട് ഹൈഡ്രജൻ സമ്പദ്വ്യവസ്ഥയെക്കുറിച്ചും പിന്നീട് ഇന്ധന സെല്ലുകളെക്കുറിച്ചും സംസാരിക്കാൻ പോകുന്നു അതിനാൽ ഞാൻ പറയുന്നത് പോലെ ഹൈഡ്രജൻ സമ്പദ്വ്യവസ്ഥ അർത്ഥമാക്കുന്നത് നമ്മൾ ഹൈഡ്രജൻ വാതകത്തെ അല്ലെങ്കിൽ ഹൈഡ്രജനെ ഒരു ഇന്ധനമായി ഒരു മൂലകമായി കാണുന്നു എന്നാണ് എന്തുകൊണ്ടാണ് ഇത് ഇന്ധനം എന്തുകൊണ്ട് ഇത് ഇന്ധനമായി നല്ലതാണ് നിങ്ങൾ ഹൈഡ്രജനെ നോക്കുകയാണെങ്കിൽ ഒരു യൂണിറ്റ് പിണ്ഡത്തിന്റെ ഊർജ്ജ ഉള്ളടക്കം വളരെ ഉയർന്നതാണ് 142 MJkg നിങ്ങൾ ഗ്യാസോലിൻ അല്ലെങ്കിൽ പെട്രോൾ പരിഗണിക്കുകയാണെങ്കിൽ നമ്മുടെ കാറുകളിൽ ഇത് മൂന്നിലൊന്ന് വരും അതിനാൽ ഒരു യൂണിറ്റിന് ഒരു കിലോഗ്രാം പിണ്ഡമുള്ള ഹൈഡ്രജൻ ഇന്ധനം ഏറ്റവും ഉയർന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ ഒന്നാണ് അത് ആകർഷകമായ ഭാഗമാണ് രണ്ടാമത്തെ ആകർഷണീയമായ ഭാഗം പ്രകൃതിയിൽ ഹൈഡ്രജൻ ധാരാളമായി ലഭ്യമാണ് അത് നമ്മൾ വരുന്ന രീതിയുടെ പോരായ്മയാണ് എന്നിരുന്നാലും ഹൈഡ്രജൻ പൂർണ്ണമായും ഭാരം കുറഞ്ഞ മൂലകമാണെന്ന് നിങ്ങൾ ഓർക്കണം അതിനാൽ നിങ്ങൾ ഒരു യൂണിറ്റ് വോളിയത്തിന് ഊർജ്ജത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അത് വളരെ കുറവാണ് കാരണം അതിന്റെ സാന്ദ്രത നമുക്കറിയാവുന്ന എല്ലാ മൂലകങ്ങളിലും ഏറ്റവും കുറവാണ് ഓരോ യൂണിറ്റ് പിണ്ഡത്തിനും ആ യൂണിറ്റ് പിണ്ഡം സംഭരിക്കുന്നതിന് ഊർജ്ജത്തിന്റെ ഉള്ളടക്കം വളരെ ഉയർന്നതാണെങ്കിലും ഒരു നിശ്ചിത ഹൈഡ്രജൻ പിണ്ഡത്തിന് വേണ്ടിയുള്ള ഒരു യൂണിറ്റിന് ആവശ്യമായ വോളിയം വളരെ വലുതാണ് ഇപ്പോൾ അടുത്തതായി ഞാൻ പറഞ്ഞത് ഹൈഡ്രജൻ എളുപ്പത്തിൽ ലഭ്യമാണ് പ്രകൃതിയിൽ ധാരാളമായി ലഭ്യമാണ് പക്ഷേ നിർഭാഗ്യവശാൽ അത് അതിന്റെ ആറ്റോമിക രൂപത്തിൽ സമൃദ്ധമായി ലഭ്യമല്ല ഇത് പ്രപഞ്ചത്തിലെ ദ്രവ്യത്തിന്റെ 75 വരും എന്നാൽ സ്വതന്ത്ര രൂപത്തിൽ ഹൈഡ്രജൻ വാതകത്തിലോ ദ്രാവകത്തിലോ ഉള്ള ഹൈഡ്രജൻ അത് ലഭ്യമല്ല H2O ജലത്തിലെ ഒരു മൂലകമായാണ് ഇത് കൂടുതലും ലഭ്യമാകുന്നത് അതിനാൽ നിങ്ങൾ ഹൈഡ്രജൻ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ജലത്തെ അതിന്റെ ഘടക ഘടകങ്ങളായി വിഭജിച്ച് ഹൈഡ്രജനും ഓക്സിജനും വേർതിരിച്ച് ഹൈഡ്രജൻ ഉപയോഗിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും അത് ലഭ്യമാണെങ്കിൽ നമ്മൾ ആദ്യം ആ സംയുക്തം തകർക്കണം ഹൈഡ്രജനെ വാതക രൂപത്തിലോ ലഭ്യമായ ദ്രാവക രൂപത്തിലോ ഒരു മൂലകമായി വേർതിരിച്ചെടുക്കുക ഇത് ഹൈഡ്രജനെക്കുറിച്ചാണ് ഹൈഡ്രജൻ എന്താണെന്നതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ മനുഷ്യൻ ഹൈഡ്രജൻ ഇന്ധനമായി കാണുന്നത് എന്തുകൊണ്ടാണ് അത് യൂണിറ്റ് പിണ്ഡത്തിന് വളരെ ഉയർന്ന ഊർജ്ജ ഉള്ളടക്കം ഉള്ളതുകൊണ്ടാണ് പക്ഷേ അത് എളുപ്പത്തിൽ ലഭ്യമല്ല എന്നതാണ് പ്രശ്നം കൽക്കരി ഫോസിൽ ഇന്ധനം പ്രകൃതിവാതകം എന്നിവയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അത് ഇന്ന് നമുക്ക് ലഭ്യമാണ് അതെ നമ്മൾ ഖനനം ചെയ്യണം പ്രകൃതി വാതകം നമ്മൾ പര്യവേക്ഷണം ചെയ്യണം നമുക്ക് കൽക്കരി ഖനനം ചെയ്യണം നിങ്ങൾ ജൈവവസ്തുക്കളെക്കുറിച്ച് സംസാരിച്ചാലും അതെ അവിടെയുണ്ട് അല്ലെങ്കിൽ പുനരുപയോഗിക്കാവുന്ന സ്രോതസ്സുകൾ നോക്കുകയാണെങ്കിൽ കാറ്റ് സൌരോർജ്ജം ഇവയെല്ലാം ഊർജ്ജ സ്രോതസ്സുകളാണ് പ്രകൃതിയിൽ നമുക്ക് ലഭ്യമാണ് പക്ഷേ ഹൈഡ്രജൻ ലഭ്യമല്ല അതിനാൽ ഹൈഡ്രജൻ ലഭിക്കുന്നതിന് നമ്മൾ ആദ്യം ഊർജ്ജം ചെലവഴിക്കണം എന്നിട്ട് അത് വ്യക്തമായ ഊർജ്ജ സ്രോതസ്സായി ഉപയോഗിക്കണം അതിനാൽ ആ ആമുഖം നമുക്ക് ഹൈഡ്രജൻ സമ്പദ്വ്യവസ്ഥയുടെ ചരിത്രത്തിലേക്ക് നോക്കാം അതിനാൽ മിസ്റ്റീരിയസ് ഐലൻഡ് എന്ന സയൻസ് ഫിക്ഷൻ സാഹസികതയിൽ ജൂൾസ് വെർണിനെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ചെറിയ ദാർശനികമായ ജൂൾസ് വെർണിന്റെ ആദ്യ ദർശനത്തോടെയുള്ള തുടക്കം അദ്ദേഹം എഴുതുന്നത് ഭാവിയിലെ കൽക്കരി ആയിരിക്കും വെള്ളം എന്നാണ് അതിനാൽ നിങ്ങൾ ഹൈഡ്രജനെ നോക്കുന്ന ആദ്യ ദർശനത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരുപക്ഷേ അത് ഈ പ്രസ്താവനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് എഴുതിയപ്പോൾ ജൂൾസ് വെർൺ എന്താണ് ചിന്തിച്ചത് നമ്മൾക്ക് അറിയില്ല എന്നാൽ പിന്നീട് കണ്ടെത്തൽ ഇത് നിങ്ങൾക്ക് ഒരു സയൻസ് ഫിക്ഷൻ ശരിയാണെന്ന ഭാവന മാത്രമായിരുന്നു എന്നാൽ കണ്ടെത്തൽ സർ വില്യം ഗ്രോവ് ആദ്യമായി 1839 ൽ ഇന്ധന സെൽ പ്രവർത്തന തത്വം തെളിയിച്ചു കൂടാതെ അതേ സമയം തന്നെ ഷൊൻബെയ്നും സ്വതന്ത്രമായി അത് പ്രദർശിപ്പിച്ചു അതിനാൽ 1839 വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഓർക്കുക അതിനാൽ വൈദ്യുതവിശ്ലേഷണം വഴി കാറ്റിൽ നിന്ന് ലഭിക്കുന്ന ഹൈഡ്രജൻ ദ്രവീകരിച്ച് സംഭരിച്ചാൽ ഭാവിയിലെ ഇന്ധനമാകുമെന്ന് ഹാൽഡെയ്ൻ പ്രവചിച്ച ഉൽപാദനവും സംഭരണവും ഹാൽഡെയ്ൻ പ്രവചിച്ചു അതിനാൽ നിങ്ങൾ വൈദ്യുതവിശ്ലേഷണം വഴി കാറ്റിൽ നിന്ന് ഹൈഡ്രജൻ നേടേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾ കാറ്റാടി വൈദ്യുതി ജലത്തിന്റെ വൈദ്യുതവിശ്ലേഷണത്തിനായി ഉപയോഗിക്കുന്ന കാറ്റാടി ടർബൈനുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഉപയോഗിക്കുന്നു തുടർന്ന് നിങ്ങൾ ഹൈഡ്രജനെ ദ്രവീകരിക്കുകയും സമ്മർദ്ദത്തിലാക്കുകയും സംഭരിക്കുകയും ചെയ്യുന്നു തുടർന്ന് നിങ്ങൾക്ക് അത് ഇന്ധനമായി ഉപയോഗിക്കാം ആ ഇന്ധനം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ചെലവ് എത്രയാണ് കാരണം അത് ഉയർന്നതായിരിക്കും നമ്മൾ അതിലേക്ക് വരും പ്രയോഗവും ഗതാഗതവും Lawaczek 1920 കളിൽ അദ്ദേഹം ഹൈഡ്രജൻ പവർ വാഹനങ്ങളുടെ ആശയം രൂപപ്പെടുത്തി അതിനാൽ ഒറ്റപ്പെട്ട കണ്ടുപിടുത്തങ്ങളും കണ്ടെത്തലുകളും 1800 1920 മുതലുള്ള വളരെ പഴക്കമുള്ളതാണ് അതിനാൽ പ്രകൃതിവാതകത്തിന് സമാനമായ പ്രകൃതിവാതകം പോലെ പൈപ്പ് ലൈനുകൾ വഴി ഹൈഡ്രജൻ കൊണ്ടുപോകാൻ കഴിയുന്ന ആദ്യത്തെ വ്യക്തിയാണിത് പെട്രോൾ പമ്പിലേക്കോ പെട്രോൾ പമ്പിലേക്കോ പോകുന്നത് പോലെയാണ് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ പൈപ്പ് ലൈനുകൾ വഴിയോ ട്രക്കുകളിലൂടെയോ കൊണ്ടുപോകുന്നത് പോലെയാണ് കാഴ്ചയെന്ന് നമ്മൾ പറഞ്ഞു ഭാവിയിൽ ഹൈഡ്രജൻ പോലും പ്രകൃതി വാതകത്തിന് സമാനമായ പൈപ്പ് ലൈനുകൾ വഴി കൊണ്ടുപോകാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് തുടർന്ന് ഇവിടെ സുസ്ഥിരമായ സിസ്റ്റം അതിനെക്കുറിച്ചുള്ള കുറച്ച് പ്രസ്താവനകളാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല അത് വായിക്കാൻ കഴിയും ഹൈഡ്രജൻ സമ്പദ്വ്യവസ്ഥയുടെ ഇത്തരത്തിലുള്ള നിങ്ങളുടെ സ്നാപ്പ് ഷോട്ട് നമ്മൾ ഹൈഡ്രജൻ ഉൽപ്പാദനത്തെ എങ്ങനെ നോക്കുന്നു നിങ്ങൾ ഹൈഡ്രജൻ എങ്ങനെ ഉത്പാദിപ്പിക്കുന്നു ഹൈഡ്രജൻ ലഭ്യമല്ലെന്ന് നമ്മൾ കാണുമ്പോൾ നമ്മൾ ആദ്യം അത് ഉത്പാദിപ്പിക്കണം അതിനാൽ ഹൈഡ്രജൻ ഉൽപാദനത്തിന്റെ ഇന്നത്തെ രീതികൾ കുറവാണ് പ്രകൃതി വാതകത്തിന്റെ നീരാവി പരിഷ്കരണം അതിനാൽ നവീകരണ പ്രതികരണം നമ്മൾ രാസ ഊർജ്ജ സംഭരണത്തിലേക്ക് നോക്കി മീഥേനിൽ നിന്ന് നമുക്ക് ഹൈഡ്രജൻ ഒരു ഉൽപ്പന്നമായി ലഭിക്കും പ്രകൃതിവാതകത്തിന്റെ നീരാവി പരിഷ്കരണം തന്നെയാണ് മെത്തിലിലേഷനും പരിഷ്കരണവും ബയോമാസ് ഗ്യാസിഫിക്കേഷൻ ഇവയ്ക്കെല്ലാം ഹൈഡ്രജൻ ഒരു മൂലകമാണ് ജൈവ എണ്ണയുടെ നീരാവി പരിഷ്കരണം വ്യക്തമാണ് ഹൈഡ്രജനെ പുറത്തെടുക്കാൻ ഹൈഡ്രോകാർബണുകളുടെ ഭാഗിക ഓക്സിഡേഷൻ ഹൈഡ്രജൻ കാർബൺ മോണോക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് ജല നീരാവി ഒരുപക്ഷേ ഉൽപ്പന്നങ്ങൾ കൽക്കരി ഗ്യാസിഫിക്കേഷൻ ഇവയാണ് ഇന്ന് ഉപയോഗിക്കുന്നത് എന്നാൽ ഈ രീതികളിൽ ഏതെങ്കിലും ഉപയോഗിച്ച് ഊർജ്ജ സ്രോതസ്സായി ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ചെലവ് നോക്കുകയാണെങ്കിൽ അത് വളരെ ഉയർന്നതാണ് നമ്മൾ 1 GJ ആണ് കാണുന്നത് അത് വളരെ ഉയർന്ന സംഖ്യയല്ല 1 ജിജെയ്ക്ക് ഇവയിലേതെങ്കിലും ഉപയോഗിച്ച് 6 ഡോളർ മുതൽ 15 ഡോളർ വരെയാണ് വില ഈ മൂല്യങ്ങളിൽ അൽപ്പം മാറ്റം വരുത്തണം ഈ മൂല്യങ്ങൾ മാറും കാരണം ഈ പ്രക്രിയകളിൽ ഏതെങ്കിലും കാലക്രമേണ മാറിക്കൊണ്ടിരിക്കുന്നു കാലത്തിനനുസരിച്ച് ഈ മൂല്യങ്ങൾ മാറും എന്നാൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇത് വളരെ ഉയർന്നതാണെന്ന് പറയേണ്ടതാണ് 1GJ യഥാർത്ഥത്തിൽ 11 MWH ൽ കുറവാണ് അതിനാൽ ഇത് ആ ഊർജ്ജ സ്രോതസ്സ് ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ചെലവ് മാത്രമാണ് തുടർന്ന് നിങ്ങൾ ഈ ഹൈഡ്രജൻ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഇന്ധനമായി ഉപയോഗിക്കാൻ പോകുന്നു അതിന് വീണ്ടും ചിലവ് വരും കൽക്കരി ഖനന ചെലവ് പര്യവേക്ഷണം ചെയ്യുന്നതിനുള്ള ചെലവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമോ പ്രകൃതി വാതകം ലഭിക്കുന്ന റിസർവോയറുകളിൽ കുഴിച്ചെടുക്കുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വീണ്ടും ഓർക്കുക ഇതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഞാൻ വളരെ കുറവാണ് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് യഥാർത്ഥത്തിൽ വൈദ്യുതോർജ്ജം ഉപയോഗിക്കുന്ന ജലത്തിന്റെ വൈദ്യുതവിശ്ലേഷണം ചിത്രീകരിക്കുന്നത് ആത്യന്തികമായി വൈദ്യുതോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഹൈഡ്രജൻ ഉപയോഗിക്കാൻ പോകുകയാണെന്ന് നമ്മൾ വീണ്ടും കാണും അതിനാൽ ഇത്തരത്തിലുള്ള ഒരു റൌണ്ട് എബൌട്ട് സാഹചര്യം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വൈദ്യുതി ഉപയോഗിക്കുന്നു തീർച്ചയായും പ്രക്രിയകളിൽ നഷ്ടങ്ങൾ ഉണ്ടാകും അതിനാൽ ഒരു ഗിഗാജൂളിന് ഏകദേശം 20 ഡോളറാണ് വില അതിനാൽ തീർച്ചയായും ഇത് ഇന്ന് വളരെ ചെലവേറിയതാണ് ഇന്നത്തെ മറ്റ് ഊർജ്ജ സ്രോതസ്സുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ധനമെന്ന നിലയിൽ ഹൈഡ്രജന്റെ വെല്ലുവിളികൾ തീർച്ചയായും ഉൽപ്പാദനം തീർച്ചയായും ഒന്നാണ് രണ്ടാമത്തേത് സംഭരണമാണ് കാരണം ഇത് ഒരു നിശ്ചിത പിണ്ഡത്തിന് വലിയ അളവാണ് അതിനാൽ ഭൂഗർഭ ടാങ്കുകളിൽ കംപ്രസ് ചെയ്ത വാതക സംഭരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ചില രീതികൾ ഇവയാണ് കംപ്രസ്ഡ് എയർ എനർജി സ്റ്റോറേജിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ ഓർക്കുക കംപ്രസ്ഡ് എയർ സ്റ്റോറേജ് ഹൈഡ്രജൻ ലിക്വിഡ് ദ്രവീകൃത ഹൈഡ്രജൻ അല്ലെങ്കിൽ കംപ്രസ്ഡ് ഹൈഡ്രജൻ എന്നിവയുടെ സംഭരണവുമായി മത്സരിക്കുന്നു അതിനാൽ ഇത് ഹൈഡ്രജൻ കംപ്രസ്ഡ് ഹൈഡ്രജനും അതുപോലെ ദ്രവീകൃത പ്രകൃതി വാതകമായ എൽഎൻജിയും ഉപയോഗിച്ച് പൂർത്തിയാകുന്നുവെന്ന് ഞങ്ങളോട് പറയപ്പെടുന്നു പൈപ്പ് ലൈനുകളിലെ കംപ്രസ് ചെയ്ത സംഭരണവും ഗതാഗതവും സാധാരണയായി വാതക കംപ്രസ്സിലാണ് വാതകം അല്ലെങ്കിൽ ദ്രാവക രൂപം ലിക്വിഡ് ഹൈഡ്രജൻ അതിനാൽ ഇതൊരു ഊർജ്ജ തീവ്രമായ പ്രക്രിയയാണ് ഗതാഗതം അപകടകരമാണ് കാരണം ഹൈഡ്രജൻ വീണ്ടും ഓർക്കുക കാരണം നമ്മൾ പിന്നീട് സംസാരിക്കും അത് വളരെ കത്തുന്ന ഇന്ധനമാണ് അടുത്തത് മെറ്റൽ ഹൈഡ്രൈഡുകളാണ് ഇത് ശരിക്കും നല്ലതാണ് എന്താണ് സംഭവിക്കുന്നത് ഇത് ചില ലോഹങ്ങളാണ് ഇത് ഊഷ്മാവിൽ ഈ വാതകം ആഗിരണം ചെയ്യുകയും പതുക്കെ ചൂടാക്കുമ്പോൾ പുറത്തുവിടുകയും ചെയ്യുന്നു നിങ്ങൾ താപനില അൽപ്പം ഉയർത്തുമ്പോൾ ഹൈഡ്രജൻ പുറത്തുവിടും പക്ഷേ പ്രശ്നം ആ ഘടകങ്ങൾ പ്ലാറ്റിനം പലേഡിയം എന്നിവയാണ് അവ വളരെ ചെലവേറിയതാണ് ഊഷ്മാവിൽ ഹൈഡ്രജനെ നിരീക്ഷിക്കുന്നതിനും ചൂടാക്കി പുറത്തുവിടുന്നതിനും നിങ്ങൾക്ക് അറിയാവുന്ന ചില അപൂർവ എർത്ത് ലോഹങ്ങളും ചില അപൂർവ ഭൂമിയിലെ മറ്റ് അപൂർവ എർത്ത് മൂലകങ്ങളും ഇപ്പോൾ പരിശോധിക്കപ്പെടുന്നു അതിനാൽ ഗവേഷണത്തിന് കീഴിലുള്ള ഒരു വിഷയമാണിത് അവസാനമായി ഗ്ലാസ് മൈക്രോസ്ഫിയറുകൾ ഇത് വളരെ ആകർഷകവും മനോഹരവുമായ സാങ്കേതികവിദ്യയാണ് ഗ്ലാസ് മൈക്രോസ്ഫിയറുകൾ ഹൈഡ്രജൻ സംഭരിക്കാനും പുറത്തുവിടാനും ഉപയോഗിക്കുന്ന ഡോപ്പ് ചെയ്ത ഗ്ലാസ് മൈക്രോസ്ഫിയറുകളാണ് ഇന്ന് നമുക്കുള്ള ചില സംഭരണ ഓപ്ഷനുകൾ ഇവയാണ് അവ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതും വളരെ വലിയ തോതിലുള്ളതല്ലെങ്കിൽ ഒരുപക്ഷേ തെളിയിക്കപ്പെട്ടിട്ടുള്ളതുമാണ് എന്നാൽ ഹൈഡ്രജനെ ഇന്ധനമായി സംഭരിക്കുന്നതിനുള്ള നല്ല സ്ഥാനാർത്ഥികളാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇത് ഒരു വെല്ലുവിളിയാണ് മറ്റൊരു വെല്ലുവിളി ജ്വലനമാണ് കാരണം ഹൈഡ്രജൻ ഉയർന്ന ജ്വലന ഇന്ധനമാണ് മറ്റൊരു പ്രശ്നം അത് കത്തുമ്പോൾ തീജ്വാല അദൃശ്യമാണ് അത് അതിവേഗം പടരുന്നു കാരണം ഇത് വളരെ നേരിയതാണ് കാരണം സാന്ദ്രത വളരെ കുറവാണ് അത് വ്യാപിക്കും അതിനാൽ അത് ഒരു പ്രശ്നമാണ് അതിനാൽ നമ്മൾ അത് മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് അപകടകരമാണ് എന്നതുകൊണ്ടല്ല അത് കത്തിച്ചാൽ അത് ഒരു നല്ല ഊർജ്ജ സ്രോതസ്സായി കാണുന്നതിൽ നിന്ന് നമ്മെ തടയരുത് എന്നാൽ ഏത് ഇന്ധനത്തിലും നാം ജാഗ്രത പാലിക്കണം അതിനാൽ അടുത്ത സ്ലൈഡിൽ ഞാൻ എന്താണ് വരുന്നത് ഹൈഡ്രജൻ ഇന്ധനത്തിന്റെ സുരക്ഷിതത്വം ഹൈഡ്രജൻ അനുചിതമായി കൈകാര്യം ചെയ്താൽ സുരക്ഷിതമല്ല കാരണം അത് അദൃശ്യമായ തീജ്വാലകളാൽ വളരെ ജ്വലിക്കുന്നതാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഊർജ്ജ സ്രോതസ്സുകൾ പെട്രോൾ ഡീസൽ ആയിരിക്കുമ്പോൾ പോലും അത് ഏത് വാതകത്തിനും സത്യമാണ് അത് വളരെ കത്തുന്നവയാണ് അതിനാൽ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം ജാഗ്രത പാലിക്കണം ഒരു സുരക്ഷിത ഇന്ധനമെന്ന നിലയിൽ ഹൈഡ്രജന്റെ പ്രശസ്തിയെ ഗുരുതരമായി കളങ്കപ്പെടുത്തുന്ന ചരിത്രപരമായി രണ്ട് സംഭവങ്ങളുണ്ട് എന്നതാണ് പ്രശ്നം ആദ്യത്തേതിനെ 1937 ലെ ഹിൻഡൻബർഗ് സംഭവം എന്ന് വിളിക്കുന്ന വളരെ ദാരുണമായ ഒരു അപകടം എന്നാണ് വിളിക്കുന്നത് അതിനാൽ ആ ദിവസങ്ങളിലെ ഹിൻഡൻബർഗ് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ നമ്മൾ ഈ ജെറ്റ് വിമാനങ്ങൾ കാണുന്നു അക്കാലത്ത് ഇവയെ എയർ ഷിപ്പുകൾ എന്നും വിളിക്കുന്നു സെപ്പെലിൻ എന്നൊരു വിമാനം ഉണ്ടായിരുന്നു എയർ ഷിപ്പുകളിൽ സാധാരണയായി ഈ കംപ്രസ് ചെയ്ത ഹൈഡ്രജൻ ടാങ്കുകൾ ഉണ്ടായിരുന്നു തുടർന്ന് ഒരു വലിയ മെറ്റൽ ഫ്രെയിമും അതിനു ചുറ്റും ഒരു തുണിയും ഉണ്ടായിരുന്നു അങ്ങനെ അത് വിമാനമായി ഉപയോഗിക്കും തീർച്ചയായും ഇത് ഇന്നത്തെ ജെറ്റ് വിമാനങ്ങൾ പോലെ വളരെ ഉയർന്ന വേഗതയിൽ പറന്നില്ല പക്ഷേ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം അതായത് അത് ഫ്ലൈറ്റുകൾക്ക് പതിവായി ഉപയോഗിച്ചിരുന്നു എന്നാണ് സെപ്പെലിൻ എന്ന എയർഷിപ്പിന് തീപിടിക്കുകയും 36 പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്ത ഹിൻഡൻബർഗ് സംഭവം വ്യോമയാന വ്യവസായത്തിന്റെ മുഖം എന്നെന്നേക്കുമായി മാറ്റിമറിച്ച സംഭവമാണ് ഈ സംഭവത്തിന് ശേഷം എയർ ഷിപ്പുകൾ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല നമ്മൾ ഇന്ന് പറക്കാൻ ഉപയോഗിക്കുന്ന ജെറ്റ് വിമാനങ്ങളിലേക്ക് പോയി എന്നിരുന്നാലും പറയുമ്പോൾ നിരവധി ഉണ്ട് എന്തുകൊണ്ടാണ് സ്ഫോടനം ഉണ്ടായത് എന്തുകൊണ്ടാണ് വിമാനത്തിന് തീപിടിച്ചത് എന്നതിനെക്കുറിച്ചുള്ള ഹിൻഡൻബർഗ് സംഭവത്തെ ചുറ്റിപ്പറ്റിയുള്ള സിദ്ധാന്തങ്ങൾ ഹൈഡ്രജന്റെ ജ്വലനം മൂലമാണ് ഹൈഡ്രജൻ അപകടമുണ്ടായതെന്നും അത് ഒരു ട്രിഗർ ആണെന്നും വ്യക്തമായ തെളിവുകളൊന്നുമില്ല വിമാനം ജർമ്മനിയുടേതാണെന്ന് ആയിരുന്നു ഇതിന് ധാരാളം സിദ്ധാന്തങ്ങളുണ്ട് അതിനാൽ നിരവധി ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ അട്ടിമറി സിദ്ധാന്തം മുതലായവ ഉണ്ടായിരുന്നു ആ കാര്യത്തിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് സ്ലൈസ് വീഡിയോ കാണിക്കാം കാരണം ഇത് വളരെ ചരിത്രപരമായ സംഭവമാണ് നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം മറ്റൊരു കാര്യം ഹൈഡ്രജൻ ബോംബാണ് ഇപ്പോൾ ഞാൻ വളരെ വ്യക്തമായി പറയട്ടെ പേരിന്റെ ഒരു ഭാഗം പങ്കിടുന്നത് നിങ്ങൾക്കറിയാമെന്നല്ലാതെ ഹൈഡ്രജൻ ബോംബും ഹൈഡ്രജനും ഒരു ഊർജ്ജ സ്രോതസ്സായി പൊതുവായി ഒന്നുമില്ല ഊർജ്ജ സ്രോതസ്സായ ഹൈഡ്രജനുമായി ഹൈഡ്രജൻ ബോംബിന് യാതൊരു ബന്ധവുമില്ല അണുബോംബ് ന്യൂക്ലിയർ ബോംബ് തീർച്ചയായും ഉണ്ടെന്ന് നമുക്ക് അറിയാമെന്നത് പോലെയാണ് ഇത് എന്നാൽ ആണവോർജ്ജവുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും മോശമാണെന്ന് അർത്ഥമാക്കുന്നുണ്ടോ ഇല്ല ഇത് മറ്റേതൊരു ഇന്ധനത്തെയും പോലെയാണ് കൽക്കരി ഉപയോഗിക്കാം അല്ലെങ്കിൽ പ്രകൃതി വാതകം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം പെട്രോളും ഡീസലും നമ്മുടെ കാറുകളോ ട്രെയിനുകളോ നീക്കാൻ ഉപയോഗിക്കാം എന്നാൽ ഇവ രണ്ടും ഉപയോഗിക്കാം തീപിടുത്തത്തിന് അതിനാൽ നിങ്ങൾ എന്തെങ്കിലും ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അത് അവിടെയുണ്ട് അതിനാൽ ഊർജ്ജ സ്രോതസ്സായി ഹൈഡ്രജൻ ബോംബും ഹൈഡ്രജനും പൊതുവായി ഒന്നുമല്ല ഞാൻ ഇപ്പോൾ അൽപ്പം വ്യതിചലിച്ച് ഒരു ചെറിയ വീഡിയോ കാണിക്കും അത് ഹിൻഡൻബർഗിലെ വളരെ ദാരുണമായ സംഭവമാണ് ചെറിയ വീഡിയോ ആണ് ഇതൊരു സെപ്പെലിൻ വിമാനമാണ് ലാൻഡിംഗ് സീസണിൽ ഹിൻഡൻബർഗ് ആധുനിക മാസ്റ്റേഴ്സിനെ സമീപിക്കുന്നു ഇരുപത്തിയൊന്ന് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ വ്യക്തതയുള്ളത് പരീക്ഷണ സേവനങ്ങൾ ഒരു പതിവാണ് അപൂർവ്വമായി 100 അടി ഓടുന്നു ആകൃതിയിലുള്ള അവളുടെ ഫ്രെയിം ഏഴ് ദശലക്ഷം ക്യുബിക് അടി കത്തുന്ന വാതകമാണ് പെട്ടെന്ന് വീഴുമ്പോൾ ദുരന്തം ഒരു നിമിഷം മാത്രം ആരെയും ഭയപ്പെടുത്തുന്നത് അവിശ്വസനീയമാണെന്ന് തോന്നുന്നു വ്യോമയാന ചരിത്രത്തിലെ നൂറ്റി ഒന്ന് ദുരന്തം നിങ്ങൾ കാണുന്നതുപോലെ വളരെ ദാരുണമായ സംഭവം ന്യൂജേഴ്സിയിൽ ഇറങ്ങുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണ് മിനിറ്റുകൾക്കകം യാത്രക്കാരും ജോലിക്കാരും ഒന്നിച്ച് 36 ജീവനുകൾ നഷ്ടപ്പെട്ടു എന്നാൽ അതിൽ ഒരു നല്ല ഭാഗം ഉണ്ടെന്ന് പറയുമ്പോൾ മൂന്നിൽ രണ്ട് പേരിലധികം ജീവൻ രക്ഷപ്പെട്ടുവെന്ന് കരുതുന്നു 36 ജീവൻ നഷ്ടപ്പെട്ടത് ദാരുണമാണ് എങ്കിലും അനേകം പേർ രക്ഷപ്പെട്ടു ഹൈഡ്രജൻ ഇന്ധനം പ്രകാശം മുകളിലേക്ക് നീങ്ങുന്നതാണ് ഒരു കാരണം എന്തായാലും ഹിൻഡൻബർഗ് സംഭവം ഒരു ചെറിയ വഴിത്തിരിവായിരുന്നു പക്ഷേ ജെറ്റ് വിമാനത്തിന് തീപിടിച്ചപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങളെ കാണിക്കാൻ ഞാൻ ആഗ്രഹിച്ചു ഹൈഡ്രജൻ പവർ ഉള്ള ഈ എയർ ഷിപ്പുകൾ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്തതിനാൽ ഇത് വ്യോമയാന വ്യവസായത്തിന്റെ മുഖം എന്നെന്നേക്കുമായി മാറ്റിമറിച്ചു കാരണം ഇത് മറ്റൊരു ബഹുമാനമാണ് നമ്മൾ ഗ്യാസ് ടർബൈൻ പവർ ജെറ്റ് എഞ്ചിനുകളിലേക്ക് പോയി അതിനാൽ ഹൈഡ്രജൻ സമ്പദ്വ്യവസ്ഥയെയും ഇന്ധനമായി ഹൈഡ്രജനെയും കുറിച്ചുള്ള ഈ ഹ്രസ്വ ചർച്ചയ്ക്ക് ശേഷം നമ്മൾ അടുത്തതായി ഇന്ധന സെല്ലിലേക്ക് നീങ്ങും ഫ്യുവൽ സെൽ യഥാർത്ഥത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഇന്ധനമായി ഹൈഡ്രജൻ ഉപയോഗിക്കുന്നു കെമിക്കൽ ഊർജ്ജം നേരിട്ട് വൈദ്യുതോർജ്ജമായി പരിവർത്തനം ചെയ്യപ്പെടുന്ന ബാറ്ററി പോലെയുള്ള ഒരു ഇലക്ട്രോകെമിക്കൽ ഉപകരണം കൂടിയാണിത് എന്നാൽ ഊർജ്ജം സംഭരിക്കാൻ ബാറ്ററി ഉപയോഗിക്കാം അതേസമയം ഫ്യുവൽ സെൽ തത്സമയം നേരിട്ടുള്ള പരിവർത്തനമാണ് സംഭരണമൊന്നും ഉൾപ്പെടുന്നില്ല നിങ്ങൾ ഇന്ധനം നൽകുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഊർജ്ജോത്പാദനം ലഭിക്കും ബാറ്ററിയിൽ നിന്ന് വ്യത്യസ്തമായി ഡിസ്ചാർജിംഗ് സൈക്കിളിൽ അത് ഊർജം നൽകും പക്ഷേ അത് ഡിസ്ചാർജ് ചെയ്യാനുള്ള പരിധിക്കപ്പുറമാണ് അത് നമ്മുടെ ടോർച്ചുകളിലോ ക്ലോക്കുകളിലോ റിമോട്ടിലോ ഉള്ളതുപോലെ ഒറ്റ ഉപയോഗമാണെങ്കിൽ ഒന്നുകിൽ അത് വലിച്ചെറിയേണ്ടിവരും നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സെൽ ഫോണുകൾക്കും ലാപ്ടോപ്പുകൾക്കും ചെയ്യുന്നതുപോലെ നമ്മൾ ഇത് റീചാർജ് ചെയ്യും നിങ്ങൾ ഇപ്പോൾ ഇന്ധന സെല്ലിലേക്ക് നീങ്ങും എന്നതാണ് അപ്പോൾ എന്താണ് ഇന്ധന സെൽ അതിനാൽ ഊർജ്ജ സ്രോതസ്സായി ഞാൻ പറഞ്ഞതുപോലെ ഇന്ധന സെൽ യഥാർത്ഥത്തിൽ ഹൈഡ്രജൻ ഉപയോഗിക്കുന്നു അതിനാൽ ഇന്ധന സെല്ലിൽ ഇലക്ട്രോഡുകളും ഒരു കാറ്റലിസ്റ്റും അടങ്ങിയിരിക്കുന്നു അതിനാൽ ബാറ്ററിക്ക് രണ്ട് ഇലക്ട്രോഡുകളും തുടർന്ന് ഇലക്ട്രോലൈറ്റും ഉള്ളതുപോലെ ഏത് ഇന്ധന സെല്ലിനും ഉണ്ടായിരിക്കും അതിനാൽ നമുക്ക് പിന്നീട് കാണാൻ കഴിയുന്നതുപോലെ പ്രോട്ടോൺ എക്സ്ചേഞ്ച് മെംബ്രൻ ഫ്യൂവൽ സെൽ എന്ന് വിളിക്കപ്പെടുന്ന ഇന്ധന സെല്ലിന്റെ ഒരു രൂപമുണ്ട് ഇലക്ട്രോണുകളുടെ ചലനം നിർത്തുമ്പോൾ പ്രോട്ടോണുകളെ പ്രവഹിക്കാൻ അനുവദിക്കുന്നു എന്നതാണ് അത് ചെയ്യുന്നത് അതിനാൽ ഈ ഇലക്ട്രോഡുകൾക്ക് ഒരു ഉൽപ്രേരകമാണ് സംഭവിക്കുന്നത് അവിടെ ഹൈഡ്രജൻ എത്തുമ്പോൾ അത് ഇലക്ട്രോണിലേക്കും പ്രോട്ടോണിലേക്കും വിഘടിക്കുന്നു നിങ്ങൾ ഇലക്ട്രോണുകൾ നീക്കം ചെയ്താൽ നിങ്ങൾ ഒരു മോണോ ആറ്റോമിക് ഹൈഡ്രജൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രോട്ടോൺ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഈ പ്രോട്ടോൺ എക്സ്ചേഞ്ച് മെംബ്രണിലൂടെ പ്രോട്ടോൺ ഇലക്ട്രോഡിന്റെ മറുവശത്തേക്ക് നീങ്ങുന്നു അവിടെ വരുന്നത് വായുവായ ഓക്സിജനാണ് അതിനാൽ ഈ പ്രോട്ടോണുകൾ യഥാർത്ഥത്തിൽ കാറ്റലിസ്റ്റിന്റെ സാന്നിധ്യത്തിൽ ഓക്സിജൻ തന്മാത്രകളുമായി പ്രതിപ്രവർത്തിക്കുന്നു ഇപ്പോൾ ഇലക്ട്രോണുകൾക്ക് എന്ത് സംഭവിക്കും അതിനാൽ ഈ ഇലക്ട്രോഡിൽ ഇലക്ട്രോണുകൾ വേർതിരിക്കുമ്പോൾ നമ്മൾ ഒരു ബാഹ്യ സർക്യൂട്ട് അറ്റാച്ചുചെയ്യുന്നു അതിനാൽ ഈ ഇലക്ട്രോൺ യഥാർത്ഥത്തിൽ ആ ബാഹ്യ സർക്യൂട്ടിലേക്ക് ഒഴുകുന്നു അവിടെ അത് പ്രോട്ടോണുമായി വീണ്ടും സംയോജിച്ച് ഹൈഡ്രജൻ ഉത്പാദിപ്പിക്കുന്നു അത് ഓക്സിജനുമായി സംയോജിച്ച് വെള്ളം ഉത്പാദിപ്പിക്കുന്നു അതിനാൽ പുറത്തുവരുന്നത് വായുവിൽ നിന്ന് കുറച്ച് ഓക്സിജനും ജല നീരാവിയുമാണ് കൂടാതെ ഇത് ഒരു എക്സോതെർമിക് പ്രതികരണമാണ് അതിനാൽ നിങ്ങൾ വ്യക്തമായ ചൂട് സൃഷ്ടിക്കാൻ പോകുന്നു ഒരു ഫ്യൂവൽ സെല്ലിലെ ഇൻപുട്ട് എന്താണ് ഇന്ധന സെല്ലിലെ ഇൻപുട്ട് പ്രധാനമായും ഹൈഡ്രജനാണ് കാരണം അതാണ് ഇന്ധനവും ഓക്സിജനും വായുവിൽ ഗണ്യമായ അളവിൽ ശാന്തമാണെന്ന് ഞാൻ കരുതുന്നു ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി കൂടാതെ ഇന്ധന സെല്ലിൽ നിന്ന് പുറത്തുവരുന്നത് ഉപോൽപ്പന്നങ്ങൾ തീർച്ചയായും താപമാണ് കാരണം അത് ഒരു എക്സോതെർമിക് പ്രതികരണമാണ് തുടർന്ന് അതിന്റെ ജല നീരാവി തീർച്ചയായും ഉപയോഗിക്കാത്ത വായു അതിനാൽ ഇത് ഒരു ഇന്ധനത്തിൽ നിന്ന് നേരിട്ട് വൈദ്യുതിയിലേക്ക് രാസ ഊർജ്ജം പരിവർത്തനം ചെയ്യുന്നു നമുക്ക് കാണാനാകുന്നതുപോലെ ഇതിന് ഉയർന്ന ദക്ഷതയുണ്ട് എന്തുകൊണ്ടാണ് ഇതിന് വളരെ ഉയർന്ന ദക്ഷത ഉള്ളത് ഇത് വളരെ ഉയർന്ന ദക്ഷതയാണ് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കും ഇതിന് കുറഞ്ഞ ശബ്ദമുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾക്കല്ലാതെ ചലിക്കുന്ന ഭാഗങ്ങളൊന്നുമില്ല ഹൈഡ്രജനും വായുവും ഒഴുകാൻ ഏതെങ്കിലും തരത്തിലുള്ള പമ്പോ ഏതെങ്കിലും തരത്തിലുള്ള ചാലകശക്തിയോ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് കംപ്രസ്സറുകളും ടർബൈനുകളും ഇല്ല ഞാൻ ഉദ്ദേശിച്ചത് പമ്പുകളാണ് അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ അളവിലുള്ള പമ്പ് ആയിരിക്കാം അതിനാൽ ആ വഴിക്ക് ശബ്ദം കുറവാണ് ഇന്ധന വിതരണം സുസ്ഥിരമാകുകയും മലിനീകരണം കുറയുകയും ചെയ്യുന്നിടത്തോളം ഇത് സ്ഥിരമായ വൈദ്യുതി ഉൽപാദനമാണ് അത്തരമൊരു ഇന്ധന സെല്ലിന് അനുയോജ്യമായ ഒരു പ്രയോഗം എന്താണ് അത്തരമൊരു ഇന്ധന സെല്ലിന് അനുയോജ്യമായ ഒരു പ്രയോഗം യഥാർത്ഥത്തിൽ കാറുകളാണ് അനുയോജ്യമായ ആപ്ലിക്കേഷനുകളിൽ ഒന്ന് ഇത് താപനില മുതലായവയെ ആശ്രയിച്ചിരിക്കുന്നു എന്നാൽ കാറുകളിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇലക്ട്രിക് കാറുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഇന്ധന സെല്ലിനെ വൈദ്യുതോർജ്ജത്തിന്റെ ഉറവിടമായി ഉപയോഗിക്കാം അല്ലെങ്കിൽ ഹൈബ്രിഡ് വാഹനങ്ങളിൽ പോലും നമുക്ക് ഇന്ധന സെല്ലുകളായി ഉപയോഗിക്കാൻ കഴിയുന്ന ഇലക്ട്രിക്കൽ ഭാഗം ഉപയോഗിക്കാം എന്നാൽ തീർച്ചയായും വെല്ലുവിളികൾ അതിനാൽ വിപണിയിൽ ഇന്ന് ലഭ്യമായ മിക്ക ഇലക്ട്രിക് വാഹനങ്ങളും ഹൈബ്രിഡ് വാഹനങ്ങളും ബാറ്ററികളാണ് ഓടിക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ നമ്മൾക്ക് ചെലവ് കുറയ്ക്കാൻ കഴിയുമെങ്കിൽ ഇന്ധന സെല്ലും ഒരുപോലെ ശക്തമായ എതിരാളിയാണ് വലിപ്പം കുറയ്ക്കുക അത് ഒതുക്കമുള്ളതാക്കുക തുടങ്ങിയവ അതിനാൽ ചുരുക്കത്തിൽ എന്താണ് ഇന്ധന സെല്ലും ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്രയോഗവും ആ ചെറിയ ആമുഖത്തോടെ നമ്മൾ ഇന്ന് ഈ പ്രഭാഷണം നിർത്തുത്തും ഇന്ധന സെല്ലിന്റെ കൂടുതൽ വിവരണത്തോടെ അടുത്ത പ്രഭാഷണത്തിൽ നമ്മൾ തുടരും ഈ പ്രഭാഷണത്തിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ നമുക്ക് പുനരാവിഷ്കരിക്കാം ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കേണ്ട ആകർഷകമായ ഒരു സ്രോതസ്സാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആരംഭിച്ചത് ഒരു യൂണിറ്റ് പിണ്ഡത്തിലുള്ള ഊർജ്ജത്തിന്റെ ഉള്ളടക്കം കാരണം നമ്മൾ കാറുകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസോലിനേക്കാൾ മൂന്നിരട്ടി ഉയർന്ന കലോറിഫിക് മൂല്യമോ ചൂടാക്കൽ മൂല്യമോ വളരെ ആകർഷകമാണ് പക്ഷേ തീർച്ചയായും ഇത് വളരെ നേരിയ ഘടകമാണ് അതിനാൽ ഒരു നിശ്ചിത പിണ്ഡത്തിന് ആവശ്യമായ വോളിയം നമ്മൾ പതിവായി ഉപയോഗിക്കുന്ന മറ്റേതെങ്കിലും ഇന്ധനങ്ങളെ അപേക്ഷിച്ച് വളരെ വലുതാണ് എന്നാൽ വലിയ പോരായ്മകളിലൊന്ന് ഹൈഡ്രജൻ ധാരാളമായി ലഭിക്കുന്നില്ല എന്നത് പ്രകൃതിയിൽ സ്വതന്ത്രമായി ലഭ്യമല്ല അത് ലഭ്യമാണ് പ്രപഞ്ചത്തിലെ ദ്രവ്യത്തിന്റെ 75 മാത്രമേ ഹൈഡ്രജൻ അടങ്ങിയിട്ടുള്ളൂ ഏറ്റവും വലിയ ഉറവിടം ജലമാണ് വെള്ളം H2O ആണ് അതിനാൽ ഹൈഡ്രജൻ ലഭ്യമാണ് പ്രകൃതിവാതകങ്ങളായ ഹൈഡ്രജൻ ഏതെങ്കിലും ഹൈഡ്രോകാർബണുകളിൽ ഹൈഡ്രജൻ ഉണ്ട് കൽക്കരിയിൽ ഹൈഡ്രജൻ ഉണ്ട് എന്നാൽ കാര്യം നിങ്ങൾ ഈ എല്ലാ കാര്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഈ എല്ലാ സ്രോതസ്സുകളിൽ നിന്നും ഹൈഡ്രജൻ വേർതിരിച്ചെടുക്കണം അതിനായി നമ്മൾ വൈദ്യുതി ഉപയോഗിക്കേണ്ടതുണ്ട് തീർച്ചയായും വൈദ്യുതിയുടെ വില ഊർജ്ജ ചെലവ് ഉൾപ്പെടുന്നു ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നത് വളരെ ഉയർന്നതാണ് അതിനാൽ അത് ഒരു പ്രശ്നമാണ് അതിനാൽ പൊതുവേ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് നമുക്ക് അധിക ചിലവ് വരുന്നുണ്ടെന്ന് നാം കാണേണ്ടതുണ്ട് അതിനാൽ എനിക്ക് റിട്ടേൺ ലഭിക്കും കാരണം ഒരു നിശ്ചിത പിണ്ഡത്തിന് എനിക്ക് കൂടുതൽ ഊർജ്ജം ലഭിക്കും നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യം ഹൈഡ്രജന്റെ സംഭരണം ഒരു വെല്ലുവിളിയാണ് കാരണം അത് പ്രകാശ മൂലകമാണ് അതിനാൽ ഇതിന് വലിയ അളവുകൾ ആവശ്യമാണ് അതുകൊണ്ട് കംപ്രസ് ചെയ്ത് സംഭരിക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ദ്രവീകരിച്ച് സൂക്ഷിക്കുന്നതിനെക്കുറിച്ചോ ചിന്തിക്കണം നമ്മൾ സംസാരിച്ച മറ്റ് രണ്ട് കാര്യങ്ങൾ മെറ്റൽ ഹൈഡ്രൈഡിന്റെ ആ രൂപത്തിലുള്ള സംഭരണമാണ് ഗ്ലാസ് മൈക്രോസ്ഫിയറുകളുടെ രൂപത്തിലുള്ള സംഭരണമാണ് നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യം ഹൈഡ്രജൻ വളരെ കത്തുന്ന വാതകമാണ് തീജ്വാലകൾ അദൃശ്യമാണ് അത് വളരെ വേഗത്തിൽ പടരുന്നു കാരണം അത് പ്രകാശമാണ് അതിനാൽ ഹൈഡ്രജൻ ഉപയോഗിച്ച് അൽപ്പം സുരക്ഷാ അപകടമുണ്ട് എന്നാൽ സത്യസന്ധമായി എല്ലാ ഇന്ധനത്തിനും ചില സുരക്ഷാ അപകടങ്ങളുണ്ട് അതിനാൽ നാം ജാഗ്രത പുലർത്തുന്നിടത്തോളം നാം അതിനെക്കുറിച്ച് വളരെയധികം വിഷമിക്കേണ്ടതില്ല നാം ബോധമുള്ളവരായിരിക്കണം ഉൾപ്പെട്ടിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് നാം ബോധവാന്മാരായിരിക്കണം മതിയായ മുൻകരുതലുകൾ എടുക്കണം അങ്ങനെ അത് സുരക്ഷാ അപകടങ്ങളിലേക്കോ അപകടങ്ങളിലേക്കോ നയിക്കില്ല അതിനാൽ നിങ്ങൾ ഒരു ചെറിയ വഴിത്തിരിവ് നടത്തിയെന്ന് നമ്മൾ പറഞ്ഞു ഞാൻ ഹിൻഡൻബർഗ് സംഭവത്തെക്കുറിച്ച് സംസാരിച്ചു ഹൈഡ്രജൻ പ്രവർത്തിക്കുന്ന ഈ എയർഷിപ്പുകൾ 1937 ൽ അവസാനത്തെ എയർ ഷിപ്പായ ജെറ്റ് വിമാനം തകർന്നു എന്നാൽ ഹൈഡ്രജന്റെ ജ്വലനം കൊണ്ടാണോ ആ അപകടം സംഭവിച്ചതെന്ന് ജൂറി ഇപ്പോഴും പുറത്താണ് ബാഹ്യ പ്രതലത്തിലെ മെറ്റീരിയൽ മുതലായവ നമ്മൾക്ക് അറിയില്ല ഹൈഡ്രജനെ ഇന്ധനമായി മറച്ചുവെച്ചാണ് അപകടം സംഭവിച്ചതെന്ന് നിർണ്ണായകമായി തെളിയിക്കപ്പെട്ടിട്ടില്ല ഹൈഡ്രജനെ ഇന്ധനമായി കണക്കാക്കിയ ആ ഹ്രസ്വ ചർച്ചയിലൂടെ നമ്മൾ ഇന്ധന സെല്ലുകളുടെ ആശയം അവതരിപ്പിക്കുന്നു അവിടെ ഹൈഡ്രജനിൽ ഉള്ള ഊർജ്ജത്തെ നേരിട്ട് വൈദ്യുതിയായി മാറ്റുന്ന ഒരു ഉപകരണമാണ് അടുത്ത ക്ലാസിൽ നമ്മൾ ഇന്ധന സെല്ലുകളെക്കുറിച്ചുള്ള ചർച്ച തുടരും വളരെയധികം നന്ദി